ഈ പ്രഭാഷണത്തിൽ ഒരു IIoT യുടെ പശ്ചാത്തലത്തിൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും ഒരു ഹ്രസ്വ അവലോകനം നമുക്ക് ലഭിക്കും അതിനാൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും അവ AR VR എന്നിങ്ങനെ ജനപ്രിയമായി അറിയപ്പെടുന്നു അവ വളരെ പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യകളാണ് അവ വ്യത്യസ്ത IoT സന്ദർഭങ്ങളിൽ വിവിധ വ്യവസായങ്ങളിൽ നിലവിൽ സ്വീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു അവർ വാഗ്ദാനം ചെയ്യുന്ന വ്യത്യസ്ത ഗുണങ്ങൾ കാരണം അവ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ അവയ്ക്ക് ചില വ്യത്യസ്ത വ്യത്യാസങ്ങളുണ്ട് അതിനാൽ അടുത്ത കുറച്ച് മിനിറ്റുകളിൽ AR VR എന്നിവയുടെ പ്രത്യേക ആട്രിബ്യൂട്ടുകളും IIoT ക്രമീകരണങ്ങളിൽ AR VR സാങ്കേതികവിദ്യകൾ സ്വീകരിക്കുന്നതിലെ വ്യത്യസ്ത വെല്ലുവിളികളും ഞങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു അതിനാൽ ഒരു സാങ്കേതിക വീക്ഷണകോണിൽ നിന്ന് AR VR എന്നിവ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വ്യവസായ മേഖലകളിൽ ഉപയോഗിക്കാം അവ ഉപയോഗിക്കാനും ഒരുമിച്ച് ഇൻഡസ്ടറി 4 0 മെച്ചപ്പെടുത്താൻ സഹായിക്കാനും കഴിയും അതിനാൽ ഉൽപ്പാദനത്തിന്റെ പ്രാഥമിക ഘട്ടങ്ങളിൽ അവ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു അവിടെ ഒപ്റ്റിമൈസേഷനും ഉൽപ്പാദനക്ഷമതയും പ്രധാന പരിഗണനകളാണ് കാരണം ഏതൊരു നിർമ്മാണ വ്യവസായത്തിലും അത് ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം പ്രക്രിയകളുടെ ഒപ്റ്റിമൈസേഷൻ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നിവ മാത്രമല്ല പ്രധാന പരിഗണനകൾ വെയർഹൌസുകളുടെ കാര്യക്ഷമതയും വളരെ പ്രധാനമാണ് വ്യത്യസ്ത AR ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഇവ മെച്ചപ്പെടുത്താം എആർ വിആർ എന്നിവ സുരക്ഷാ സാഹചര്യങ്ങളിലും പ്രധാനമാണ് അതിനാൽ ഉദാഹരണത്തിന് വ്യാവസായിക സുരക്ഷയുടെ പരിശീലനത്തിനായി VR ഉം AR ഉം ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതിനാൽ ഈ പ്രഭാഷണത്തിലല്ല മറ്റൊരു പ്രഭാഷണത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും അതിനാൽ വ്യാവസായിക പ്ലാന്റുകളിലെ സുരക്ഷയുടെ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിന് AR VR എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ പ്രദർശിപ്പിക്കും അതിനാൽ ഇവ വളരെ പ്രധാനപ്പെട്ട സാങ്കേതികവിദ്യകളാണ് അതിനാൽ ഈ സാങ്കേതികവിദ്യകളെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണ വ്യവസായങ്ങളിലെ IIoT ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഞാൻ കരുതിയതിന്റെ കാരണം ഇതാണ് IIoT യ്ക്കായി AR VR എന്നിവ നൽകുന്ന വ്യത്യസ്ത ഉപയോഗ കേസുകൾ മെഷീനിംഗും ഉൽപാദനവും പോലെയുള്ള കാര്യങ്ങളാണ് വ്യവസായങ്ങളിലെ വിവിധ അടിസ്ഥാന സൌകര്യങ്ങളുടെ വിദ്യാഭ്യാസം പരിശീലനം സഹകരണം അസംബ്ലി ലൈൻ സുരക്ഷാ സുരക്ഷ എന്നിവയിൽ മൊത്തത്തിലുള്ള മെഷീനിംഗ് പ്രക്രിയകൾ ഉൽപ്പാദന പ്രക്രിയകൾ മെച്ചപ്പെടുത്താൻ ഈ സാങ്കേതികവിദ്യകൾ AR VR ഉപയോഗിക്കാം കൂടാതെ ഡിജിറ്റൽ പ്രോട്ടോടൈപ്പിംഗ് ഫാക്ടറി ആസൂത്രണം അറ്റകുറ്റപ്പണികൾ പരിശോധന എന്നിവ IoT ക്രമീകരണങ്ങളിലെ ഈ സാങ്കേതികവിദ്യകളുടെ വ്യത്യസ്ത ഉപയോഗങ്ങളിൽ ചിലതാണ് അതിനാൽ ഇവ വളരെ പ്രധാനമാണ് എന്നാൽ ഒരു കാര്യം ഓർക്കുക ഈ അര മണിക്കൂർ പ്രഭാഷണത്തിലൂടെ AR എങ്ങനെ ഉപയോഗിക്കാമെന്നും VR എങ്ങനെ ഉപയോഗിക്കാമെന്നും നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല അതിനാൽ ഇവിടെ നിങ്ങൾ AR ന്റെ വ്യത്യസ്ത സവിശേഷതകൾ VR ന്റെ വ്യത്യസ്ത സവിശേഷതകൾ അവ എങ്ങനെ ഉപയോഗിക്കാം എവിടെ ഉപയോഗിക്കാം എവിടെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നിവയെക്കുറിച്ച് പഠിക്കാൻ പോകുന്നു അതിനാൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവയാണ് AR VR എന്നീ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിൽ എങ്ങനെ മാസ്റ്റർ ആകാമെന്ന് ഈ അരമണിക്കൂർ പ്രഭാഷണത്തിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല അതിനാൽ ഇത് അടിസ്ഥാനപരമായി മൊത്തത്തിലുള്ളതാണ് ഇതാണ് ഈ പ്രത്യേക പ്രഭാഷണത്തിന്റെ മൊത്തത്തിലുള്ള വ്യാപ്തി അതിനാൽ നമുക്ക് ഇപ്പോൾ AR എന്താണെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം അതിനാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ അടിസ്ഥാനപരമായി ഓഗ്മെന്റഡ് റിയാലിറ്റി അതിനാൽ ഫിസിക്കൽ റിയാലിറ്റി ചില വിവരങ്ങൾ ഉപയോഗിച്ച് വർധിപ്പിക്കുന്നു സാധാരണഗതിയിൽ ഉപയോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകാനും ഉപയോക്താക്കൾക്ക് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ധാരണ മെച്ചപ്പെടുത്താനും അത്തരം വിവരങ്ങൾ ഉപയോഗിച്ച് ചില കമ്പ്യൂട്ടർ സൃഷ്ടിച്ച ഡിജിറ്റൽ ഇമേജുകൾ വർദ്ധിപ്പിക്കും അതിനാൽ ഇത് AR അടിസ്ഥാനപരമായി യാഥാർത്ഥ്യത്തിന്റെ വികാരം മെച്ചപ്പെടുത്തും ഉപയോക്താവ് പ്രവർത്തിക്കുന്ന ലോകത്തിന്റെ ഭൌതിക യാഥാർത്ഥ്യം കമ്പ്യൂട്ടർ ജനറേറ്റഡ് സാങ്കേതികവിദ്യകൾ സാധാരണയായി വ്യത്യസ്ത തരം ചിത്രങ്ങൾ വീഡിയോകൾ മുതലായവയുടെ സഹായത്തോടെ ഞാൻ പറഞ്ഞതുപോലെ മെച്ചപ്പെട്ട അനുഭവം നൽകാം അതിനാൽ ഈ ഡിജിറ്റൽ ഘടകങ്ങൾ യഥാർത്ഥ പരിതസ്ഥിതിയിലേക്ക് ചേർക്കുന്നു ഒപ്പം ഒരുമിച്ച് നമുക്ക് ഒരു വർദ്ധിപ്പിച്ച പരിതസ്ഥിതിയുണ്ട് അവിടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ധാരണ മെച്ചപ്പെടുന്നു ഇതാണ് AR എന്നത് അതിനാൽ AR ന്റെ ചില പ്രധാന സവിശേഷതകൾ ഇത് മിക്സഡ് റിയാലിറ്റി സ്പെക്ട്രത്തിന്റെ മധ്യത്തിലാണ് അതിനാൽ ഞങ്ങൾ വ്യത്യസ്ത തരം യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കുന്നത് ആഗ്മെന്റഡ് റിയാലിറ്റിയെ ക്കുറിച്ചാണ് ഞങ്ങൾ വെർച്വൽ റിയാലിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് യാഥാർത്ഥ്യമൊന്നുമില്ലാത്തതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് പൂർണ്ണമായും ഭൌതിക അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് പൂർണ്ണമായും മുഴുകിയിരിക്കുന്ന തരത്തിലുള്ള പരിസ്ഥിതിയെക്കുറിച്ചാണ് അതിനാൽ AR എന്നത് ഒരുതരം മിക്സഡ് റിയാലിറ്റി പരിസ്ഥിതിയാണ് VR മിക്സഡ് റിയാലിറ്റി പരിസ്ഥിതി പ്രദാനം ചെയ്യുന്നു അതിനാൽ ഇത് ഒന്നിലധികം സെൻസർ മോഡുകൾ നൽകുന്നു അത് വിഷ്വൽ ഓഡിറ്ററി അല്ലെങ്കിൽ ഹാപ്റ്റിക് ആകാം ഹാപ്റ്റിക് എന്നാൽ എന്താണ് സ്പർശനത്തിലൂടെ സ്പർശനത്തിലൂടെ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് വ്യത്യസ്ത സെൻസറുകൾ ഉണ്ട് അവ കണ്ണിലേക്കും ചെവികളിലേക്കും വിരലുകളിലേക്കും ചേർക്കുന്നു ഇത് ഉപയോക്താവിന് മെച്ചപ്പെട്ട അനുഭവം നൽകും ഈ ഉപയോക്താക്കൾ ഏതെങ്കിലും ഉപയോക്താവാകാം IIoT ക്രമീകരണങ്ങളിലെ വ്യാവസായിക ക്രമീകരണങ്ങളിൽ ഞങ്ങൾ സാധാരണയായി വ്യവസായ ഉപയോക്താക്കളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് പറയാം ഒരു പ്രത്യേക മെഷീന്റെ മെക്കാനിക്കിനെ ഒരു പ്രത്യേക മെഷീന്റെ ഓപ്പറേറ്ററെ AR ഉപയോഗിച്ച് പരിശീലിപ്പിക്കാം ഈ വ്യത്യസ്ത തരം സെൻസറുകളുടെ സഹായത്തോടെ ഞാൻ സൂചിപ്പിച്ച വിഷ്വൽ ഓഡിറ്ററി ഹാപ്റ്റിക് സെൻസറുകൾ ആ പ്രത്യേക ഉപയോക്താവിന് ഘടിപ്പിക്കാം അല്ലെങ്കിൽ ഒരു വ്യാവസായിക യന്ത്രത്തിന്റെ മെക്കാനിക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റർ കൂടാതെ വ്യത്യസ്ത കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജുകൾ കാണിക്കാൻ കഴിയും അത് അടിസ്ഥാനപരമായി ആ പ്രത്യേക മെക്കാനിക്ക് ഓപ്പറേറ്റർ പ്രവർത്തിക്കുന്ന ഭൌതിക അന്തരീക്ഷത്തെക്കുറിച്ച് മികച്ച ധാരണ നൽകും അതിനാൽ അവർക്ക് യഥാർത്ഥ യാഥാർത്ഥ്യത്തിന്റെ മെച്ചപ്പെടുത്തിയ റിയാലിറ്റി ഉണ്ടായിരിക്കും അതിനാൽ അത് അതിൽ നിന്ന് ജനറേറ്റുചെയ്യാൻ പോകുന്നു അതിനാൽ വ്യവസായ ക്രമീകരണങ്ങളിൽ AR ന്റെ ഉപയോഗത്തിന്റെ മുഴുവൻ നേട്ടവും ഇതാണ് അതിനാൽ നമുക്ക് ചരിത്രത്തിലേക്ക് അൽപ്പം കടന്നുപോകാം അതിനാൽ അടുത്ത കാലത്തായി AR വളരെ ജനപ്രിയമായിത്തീർന്നു പക്ഷേ 1900 കളുടെ തുടക്കം മുതൽ അത് വളരെക്കാലമായി അവിടെയുണ്ട് അതിനാൽ 1901 ൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേകളുടെയും കണ്ണടകളുടെയും ആശയം നിലവിൽ വന്നു ഫ്രാങ്ക് ബാം അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള ഒരു ആശയം ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു 1980 കളിൽ യഥാർത്ഥ ലോകത്തെ അഞ്ച് ശരിയായ കഴിവുകൾ പഠിപ്പിക്കുന്നതിനായി അദ്ദേഹം ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ പ്രസിദ്ധീകരിച്ചു ഞങ്ങൾ പൂർത്തിയാക്കിക്കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേകളുടെ പൊതു പ്രസിദ്ധീകരണങ്ങളുടെ ഈ പ്രസിദ്ധീകരണം ലിന്റൺ ലഭ്യമാക്കി 1990 കളിൽ ബോയിംഗ് ഗവേഷകനായ തമോസ് സംവിധാനവുമായി മുന്നോട്ടുവന്നു അത് യുദ്ധഭൂമിയിലെ ഓഗ്മെന്റഡ് റിയാലിറ്റി സംവിധാനമാണ് 2013 ൽ ഗൂഗിൾ ഗൂഗിൾ ഗ്ലാസ് കൊണ്ടുവന്നു അത് വളരെ ജനപ്രിയമാണ് ഇപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ മൊത്തത്തിലുള്ള ചരിത്രമാണ് അതിനാൽ കഴിഞ്ഞ നൂറ്റാണ്ട് 1900 മുതൽ 1900 ന്റെ ആരംഭം വരെ വിവിധ രൂപങ്ങളിൽ വർദ്ധിപ്പിച്ച റിയാലിറ്റി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് വളരെ ജനപ്രിയമായിത്തീർന്നു കാരണം വ്യത്യസ്ത വ്യവസായ ക്രമീകരണങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു അതിനാൽ വിനോദസഞ്ചാരം വിനോദം റീട്ടെയിൽ വ്യാവസായിക ഡിസൈൻ മെഡിക്കൽ പരിതസ്ഥിതികൾ ആശുപത്രി ക്രമീകരണങ്ങൾ ഉദാഹരണത്തിന് ഫ്ലൈറ്റ് പരിശീലനം വിദ്യാഭ്യാസം സൈനിക പരിശീലനം എന്നിവയിൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ വ്യത്യസ്ത പ്രയോഗങ്ങൾ യാഥാർത്ഥ്യത്തിന് വ്യത്യസ്ത പ്രയോഗങ്ങളുണ്ട് അതിനാൽ ഇവിടെ ഈ പ്രത്യേക ചിത്രത്തിൽ ചിത്രപരമായി വ്യത്യസ്ത ഓഗ്മെന്റഡ് റിയാലിറ്റി സിസ്റ്റങ്ങൾ കാണിക്കുന്നു അതിനാൽ ഇടതുവശത്ത് നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി കണ്ണടയുണ്ട് ഇതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി ഐഗ്ലാസ് ഇത് ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേയാണ് വ്യക്തി ഇത് ധരിക്കുന്നത് ഇവിടെ കാണാം ഡിസ്പ്ലേ യൂണിറ്റ് ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ യൂണിറ്റ് തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ മെഡിക്കൽ ആപ്ലിക്കേഷനുകളും ഉണ്ട് ഡോക്ടർമാർ ഒരുതരം ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നു കൂടാതെ ശസ്ത്രക്രിയ നടത്തുന്ന ഹൃദയത്തിന്റെ വിവിധ വശങ്ങൾ ഡിസ്പ്ലേ ഉപയോഗിച്ച് കാണാൻ കഴിയും അതിനാൽ ഈ വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചില പ്രധാന ഘടകങ്ങൾ ഇവയാണ് അവ AR നായി ഉപയോഗിക്കുന്നു സെൻസറുകളും ക്യാമറകളും ഉണ്ട് പ്രൊജക്ഷൻ സ്ക്രീൻ പ്രോസസ്സിംഗ് യൂണിറ്റ് മിററുകൾ പോലുള്ള പ്രതിഫലന സംവിധാനങ്ങൾ തുടങ്ങിയവ അതിനാൽ AR ന് ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളിൽ ചിലതാണ് ഇവ അതിനാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ AR സിസ്റ്റങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ചില പ്രധാന സവിശേഷതകളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കാം അതിനാൽ എന്താണ് പ്രധാനം ഞങ്ങൾക്ക് ഈ സെൻസറുകൾ ഉണ്ട് ഞങ്ങൾക്ക് സെൻസറുകൾ ഉണ്ട് ഈ സെൻസറുകൾ അടിസ്ഥാനപരമായി യഥാർത്ഥ ലോക വിവരങ്ങൾ ശേഖരിക്കുന്നവയാണ് പിന്നെ നമുക്ക് ക്യാമറകളും ഈ ക്യാമറകളും അവർ പരിസ്ഥിതിയെ സ്കാൻ ചെയ്യുന്നു അവ പരിസ്ഥിതിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് പ്രൊജക്ടറുകൾ ഉണ്ട് അടിസ്ഥാനപരമായി അവർ പരിസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എവിടെയെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾക്ക് കണ്ണാടികളുണ്ട് ഇത് അടിസ്ഥാനപരമായി പ്രതിഫലന സംവിധാനമാണ് അതിനാൽ ഇവ AR ന്റെ വ്യത്യസ്ത ഘടകങ്ങളിൽ ചിലതാണ് AR സിസ്റ്റങ്ങൾ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഈ മിററുകൾ വളരെ പ്രധാനമാണ് കാരണം ഉപയോക്താക്കളുടെ കണ്ണ് അതിന്റെ സ്ഥാനം എങ്ങനെ മാറ്റുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി അവയ്ക്ക് ഓറിയന്റേഷൻ മാറ്റാൻ കഴിയും അതിനാൽ ഇവയാണ് AR ന്റെ പ്രധാന വശങ്ങൾ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനാൽ ഡാറ്റ ശേഖരിക്കുന്ന സെൻസറുകൾ വിവരങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങളിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതും ക്യാമറകൾക്കും അടിസ്ഥാനപരമായി അറിയാം തുടർന്ന് സെൻസറുകൾ ക്യാമറകൾ ഈ വിവരങ്ങൾ ശേഖരിച്ച് പ്രൊജക്ടറുകളിലേക്ക് അയയ്ക്കുന്നു ഈ പ്രൊജക്റ്റർ അടിസ്ഥാനപരമായി ഈ വിവരങ്ങളെല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്നു തുടർന്ന് നിങ്ങൾക്ക് ഈ പ്രതിഫലനം ലഭിക്കും സിസ്റ്റം അത് കണ്ണാടിയാണ് അതിനാൽ AR സിസ്റ്റങ്ങൾ സമഗ്രമായി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഈ അരമണിക്കൂർ പ്രഭാഷണത്തിലൂടെ നിങ്ങൾക്ക് AR ന്റെയോ VR ന്റെയോ വിദഗ്ദ്ധനാകാൻ കഴിയില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് സിസ്റ്റങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അതിൽ എന്താണ് ഉള്ളതെന്നും ഒരു സംക്ഷിപ്ത എക്സ്പോസിറ്ററി ഐഡിയ ലഭിക്കാൻ വേണ്ടി മാത്രമാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് വിവിധ തരം ഓഗ്മെന്റഡ് റിയാലിറ്റി നോക്കാം ഞങ്ങൾക്ക് മാർക്കർ അടിസ്ഥാനമാക്കിയുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി മാർക്കർ ലെസ് ഓഗ്മെന്റഡ് റിയാലിറ്റി പ്രൊജക്ഷൻ അധിഷ്ഠിത ഓഗ്മെന്റഡ് റിയാലിറ്റി സൂപ്പർഇമ്പോസിഷൻ അടിസ്ഥാനമാക്കിയുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി ഇവയാണ് ഈ വ്യത്യസ്ത തരം ഓഗ്മെന്റഡ് റിയാലിറ്റികളിൽ ചിലത് ക്യാമറയും വിഷ്വൽ മാർക്കറും വായനക്കാരനെ തിരിച്ചറിയുമ്പോൾ മാർക്കർ അടിസ്ഥാനമാക്കിയുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി ഒരു ഫലം നൽകുന്നു അതിനാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ക്യാമറയും മാർക്കറിന്റെ നിലനിൽപ്പും അതിനാൽ ഈ മാർക്കറുകൾ അടിസ്ഥാനപരമായി ലളിതമായ വ്യതിരിക്തമായ പാറ്റേണുകൾ തിരിച്ചറിയാൻ സഹായിക്കും അത് എളുപ്പത്തിൽ പ്രോസസ്സ് ചെയ്യാനും ഈ ക്യാമറയുടെ പ്രവർത്തനം എന്താണെന്ന് ക്യാമറ നന്നായി മനസ്സിലാക്കാനും കഴിയും മാർക്കർ ലെസ് ഓഗ്മെന്റഡ് റിയാലിറ്റി മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തരത്തിലുള്ള മാർക്കറും ഉപയോഗിക്കുന്നില്ല കൂടാതെ സാധാരണയായി ഉപയോഗിക്കുന്ന GPS ഡിജിറ്റൽ കോമ്പസ് അല്ലെങ്കിൽ ആക്സിലറോമീറ്റർ പോലുള്ളവ അടിസ്ഥാനപരമായി ഒരു വ്യക്തിയുടെയോ ഉപകരണത്തിന്റെയോ സ്ഥാനം പോലുള്ള വിവരങ്ങൾ നൽകാൻ സഹായിക്കുന്നു അപ്പോൾ നമുക്ക് പ്രവചനാധിഷ്ഠിതമായ ഓഗ്മെന്റഡ് റിയാലിറ്റി ഉണ്ട് അത് യഥാർത്ഥ ലോക പ്രതലങ്ങളിലേക്ക് പ്രകാശം പ്രദർശിപ്പിച്ച് ഒരു ഫലം നൽകുന്നു അത് പ്രകാശം അയച്ചുകൊണ്ട് മനുഷ്യ ഇടപെടൽ അനുവദിക്കുന്നു പ്രതീക്ഷിക്കുന്ന പൊസിഷൻ പ്രൊജക്ഷനും പ്രതീക്ഷിച്ചതും മാറിയതുമായ പ്രൊജക്ഷനും തമ്മിൽ ഇത് വ്യത്യാസപ്പെടുത്തുന്നു അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് പ്രതീക്ഷയിലും മാറ്റം വരുത്തിയ പ്രൊജക്ഷനിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതും AR ന് പ്രധാനമാണ് അപ്പോൾ നമുക്ക് സൂപ്പർഇമ്പോസിഷൻ അടിസ്ഥാനമാക്കിയുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി ഉണ്ട് അത് ഒബ്ജക്റ്റിന്റെ യഥാർത്ഥ കാഴ്ചയെ ഭാഗികമായോ പൂർണ്ണമായോ മാറ്റിസ്ഥാപിക്കുന്നു ഇവിടെ ഒബ്ജക്റ്റ് തിരിച്ചറിയൽ അടിസ്ഥാനപരമായി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കൂടാതെ ഇത്തരത്തിലുള്ള സൂപ്പർഇമ്പോസിഷൻ അടിസ്ഥാനമാക്കിയുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ ഒറിജിനൽ കാഴ്ചയെ ഓഗ്മെന്റഡ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ അപ്ലിക്കേഷന് കഴിയില്ല അതിനാൽ AR ന്റെ ചില ഹൈലൈറ്റുകൾ ഇവയാണ് അത് വളരെ ഉയർന്ന തലത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന്റെ വ്യത്യസ്ത ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് VR എന്താണെന്നും പിന്നീട് VR ന്റെ വ്യത്യസ്ത ഹൈലൈറ്റുകളിലൂടെ കടന്നുപോയതിനുശേഷം AR ഉം VR ഉം എങ്ങനെ പരസ്പരം താരതമ്യം ചെയ്യുന്നുവെന്നും AR ഉം VR ഉം തമ്മിലുള്ള സമാനതകൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം വ്യത്യാസങ്ങൾ അതിനാൽ ഇന്ററാക്ടീവ് ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയർ അധിഷ്ഠിത കൃത്രിമ പരിതസ്ഥിതിയുടെയും മിശ്രിതമാണ് VR അതിനാൽ മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഒരു ഇന്ററാക്ടീവ് ഹാർഡ്വെയറാണ് ഇവിടെ ഇത് ഇന്ററാക്ടീവ് ആണ് കൂടാതെ ഇത് ഒരു ത്രിമാന ഇമേജ് വാഗ്ദാനം ചെയ്യുന്നു ഒരു റിയലിസ്റ്റിക് ത്രിമാന ഇമേജ് സൃഷ്ടിക്കപ്പെട്ടു കൂടാതെ VR ലെ ഉപയോക്താവിന് ഉപയോക്താവ് യഥാർത്ഥത്തിൽ ഭൌതിക ലോകത്ത് ഉണ്ടെന്ന് തോന്നുന്നു അത് അനുകരിക്കപ്പെടുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അത് ഇല്ല അതിനാൽ ഇത് ഒരു വെർച്വൽ പരിതസ്ഥിതിയാണ് എന്നാൽ ഉപയോക്താവിന് തോന്നുന്നത് ഉപയോക്താവ് യഥാർത്ഥ ഭൌതിക പരിതസ്ഥിതിയിൽ പ്രവർത്തിക്കുകയാണെന്ന് അതിനാൽ ഉപയോക്താവിന് ലഭിക്കുന്ന വെർച്വൽ ഇമ്മർഷൻ തരത്തിലുള്ള അനുഭവമാണിത് അതിനാൽ ഉപയോക്താവിന് ഈ വിവരങ്ങൾ അവതരിപ്പിക്കുന്നത് ഉപയോക്താവ് പ്രവർത്തിക്കുന്നത് യഥാർത്ഥ ലോകത്തിലോ ഭൌതിക ലോകത്തിലോ ആണെന്ന് ഉപയോക്താവിന് തോന്നുന്ന തരത്തിലാണ് അതിനാൽ VR ന്റെ പ്രധാന സവിശേഷതകൾ അത് ഒരു സാങ്കൽപ്പിക യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് വളരെ പ്രധാനമാണ് ഇത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ല മറിച്ച് ഒരു വെർച്വൽ റിയാലിറ്റിയാണ് സാങ്കൽപ്പിക യാഥാർത്ഥ്യമാണ് അപ്പോൾ നമുക്ക് അത് ഭൌതികമല്ലാത്ത ഒരു ലോകത്ത് ശാരീരികമായി ഉണ്ടെന്നുള്ള ധാരണ നൽകുന്നു ഇതും വളരെ പ്രധാനമാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു ഭൌതിക ലോകമല്ല അത് അനുകരിക്കപ്പെട്ട ഒന്നാണ് വെർച്വൽ ആണ് എന്നാൽ ഉപയോക്താവ് അനുകരിക്കപ്പെടുന്ന ഭൌതിക ലോകവുമായി സംവദിക്കുന്നതായി ഉപയോക്താവിന് തോന്നുന്നു അതിനാൽ ഇത് ഓഡിറ്ററി വിഷ്വൽ സെൻസറി ഫീഡ്ബാക്ക് ഉൾക്കൊള്ളുന്നു ഈ സാഹചര്യത്തിൽ എല്ലാത്തരം സെൻസറുകളും ഉപയോഗിക്കുന്നു കൂടാതെ ഓഡിറ്ററി വിഷ്വൽ ടച്ച് ഹാപ്റ്റിക് ഇന്റർഫേസുകളും ഉപയോഗിക്കുന്നു അതിനാൽ ഉപയോക്താവിന് ഉപകരണങ്ങൾ കൈവശം വയ്ക്കാനും യഥാർത്ഥത്തിൽ ഉപയോക്താവ് ഉപകരണം കൈവശം വച്ചിരിക്കുന്നതായി അനുഭവിക്കാനും കഴിയും ഉദാഹരണത്തിന് ഉപയോക്താവിന് കാറിന്റെ സ്റ്റിയറിംഗ് വീൽ പിടിക്കുന്നതായി ഒരു ഉപയോക്താവിന് തോന്നിയേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു വെർച്വൽ പരിതസ്ഥിതിയിലും ഇംമുലേറ്റഡ് പരിതസ്ഥിതിയിലും ഉപയോക്താവിന് ഒരു പ്രത്യേകം കൈവശം വച്ചിരിക്കുന്നുവെന്ന തോന്നൽ ഉപയോക്താവിന് നൽകുന്ന ചില സെൻസറുകൾ ഉണ്ട് കാറിന്റെ സ്റ്റിയറിംഗ് വീൽ പക്ഷേ യഥാർത്ഥത്തിൽ ഉപയോക്താവിന് അനുഭവപ്പെടുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ഉപയോക്താവിനെ പിടിക്കാതിരിക്കുക എന്നത് യഥാർത്ഥത്തിൽ സ്റ്റിയറിംഗ് വീൽ പിടിക്കുകയല്ല അവൻ കാർ ഓടിക്കുന്നില്ല അതിനാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അടിസ്ഥാനപരമായി ഇത് നിങ്ങൾക്ക് വ്യക്തമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിന്റെ സാങ്കേതിക വിശദാംശങ്ങളല്ല മറിച്ച് വിആർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള മതിപ്പ് അതിനാൽ വെർച്വൽ പരിതസ്ഥിതിയിലേക്ക് സ്വാഭാവികമായി ആഗിരണം ചെയ്യാൻ ഇത് ഉപയോക്താക്കളെ അനുവദിക്കുന്നു അതിനാൽ വിആറിൽ ഇതും വളരെ പ്രധാനമാണ് അതിനാൽ വെർച്വൽ റിയാലിറ്റിയുടെ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി അത് എങ്ങനെ വികസിച്ചു അങ്ങനെ ഏകദേശം 1960 കളുടെ തുടക്കത്തിൽ 1960 കളുടെ തുടക്കത്തിൽ ചലച്ചിത്ര നിർമ്മാതാവ് മോർട്ടൺ ഹെയ്ലിഗ് വെർച്വൽ റിയാലിറ്റി എന്ന പദം ഉപയോഗിച്ചു അതിനാൽ യഥാർത്ഥത്തിൽ വെർച്വൽ റിയാലിറ്റിയുടെ ജനപ്രീതി 1987 ൽ ഈ പദത്തോടെ ആരംഭിച്ചു വെർച്വൽ റിയാലിറ്റി പദം 1987 ൽ ആരംഭിച്ചു തുടർന്ന് 1984 ൽ മരിച്ച ഡേവിഡ് ഇഎം 1979 ൽ ലീപ്പ് സിസ്റ്റം സൃഷ്ടിച്ചു അത് വലിയ ചെലവ് അധിക വീക്ഷണം ഒപ്റ്റിക്കൽ സിസ്റ്റം 2015 ൽ ഗൂഗിൾ ആദ്യമായി റസിഡന്റ് ആർട്ടിസ്റ്റ് സിസ്റ്റം സൃഷ്ടിച്ചു അത് വളരെ ജനപ്രിയമായ ഒരു സിസ്റ്റമാണ് ഇതൊരു വെർച്വൽ റിയാലിറ്റി സിസ്റ്റമാണ് അതിനാൽ AR ന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നേരത്തെ സംസാരിച്ച ഗൂഗിൾ ഗ്ലാസ് ഈ സിസ്റ്റത്തിലെ Google ന്റെ റസിഡന്റ് ആർട്ടിസ്റ്റ് സിസ്റ്റം വെർച്വൽ റിയാലിറ്റി സിസ്റ്റത്തിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന AR VR എന്നിവയുടെ കാര്യത്തിൽ ഇവ വളരെ ജനപ്രിയമായ സംവിധാനങ്ങളാണ് അതിനാൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ വിനോദ വ്യവസായങ്ങൾ റോബോട്ടിക്സ് ബഹിരാകാശയാത്രികർ എന്നിവർ ഉപയോഗിക്കുന്ന വിആറിന്റെ വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ ഉണ്ട് ബഹിരാകാശയാത്രികർ വിആർ ധാരാളം ഉപയോഗിക്കുന്നു കാരണം ബഹിരാകാശത്തേക്ക് ഒരു ബഹിരാകാശ പേടകം അയയ്ക്കുന്നതിന് മുമ്പുതന്നെ ബഹിരാകാശയാത്രികരെ വെർച്വൽ പരിതസ്ഥിതികളിൽ പരിശീലിപ്പിക്കുന്നു വിആർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബഹിരാകാശയാത്രികർ ഫ്ലൈറ്റ് പൈലറ്റുമാർക്കും സമാനമായ രീതിയിൽ പരിശീലനം നൽകുന്നു വെർച്വൽ റിയാലിറ്റി സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലും പലപ്പോഴും ഫൈറ്റ് പൈലറ്റുമാർക്ക് പരിശീലനം നൽകാറുണ്ട് ആരോഗ്യ സുരക്ഷാ ആരോഗ്യ സംരക്ഷണ വ്യവസായങ്ങളിൽ വിആർ ഉപയോഗിക്കുന്നു അതിനാൽ ജീവനുള്ള ഗുരുതരമായ ശസ്ത്രക്രിയ നടത്തുന്നതിന് മുമ്പ് ഡോക്ടർമാർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് വിആർ പരിതസ്ഥിതിയിൽ ആ ശസ്ത്രക്രിയ പരിശീലിക്കാൻ ഡോക്ടർക്ക് ശ്രമിക്കാം വിദ്യാഭ്യാസ പരിതസ്ഥിതികളിൽ ഇത് 3D ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്നു VR ബഹുജന നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നു കൂടാതെ VR ആപ്ലിക്കേഷനുകളും കണ്ടെത്തി അതിനാൽ കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ വിആർ സിസ്റ്റങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മൊത്തത്തിൽ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം അതിനാൽ നമുക്ക് വ്യത്യസ്ത സെൻസറുകൾ ഉള്ളതുപോലെ ഇവിടെയും ഈ വ്യത്യസ്ത സെൻസറുകൾ ഉണ്ട് ഈ സെൻസറുകൾക്ക് ബഹിരാകാശത്തിലെ ദിശ ചലനം ബഹിരാകാശത്ത് ബഹിരാകാശത്തിലെ സ്ഥാനം ഇവയെല്ലാം ഈ സെൻസറുകൾ ഉപയോഗിച്ച് കണ്ടെത്താനാകും കൂടാതെ വ്യത്യസ്ത തരം സെൻസറുകൾ ഉപയോഗിക്കാനും കഴിയും അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്ത ലെൻസുകളും ഉണ്ട് അത് ഓരോ കണ്ണിന്റെയും ചിത്രം പകർത്താനും രൂപമാറ്റം ചെയ്യാനും ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉണ്ട് അത് അടിസ്ഥാനപരമായി ക്യാപ്ചർ ചെയ്ത ഡാറ്റ പ്രോസസ്സ് ചെയ്യും തുടർന്ന് നമുക്ക് അവസാനം ഡിസ്പ്ലേ സ്ക്രീനുകൾ ഉണ്ട് അത് അടിസ്ഥാനപരമായി ഉപയോക്താവിന് ഭൌതിക ലോകത്ത് ഉപയോഗിക്കപ്പെടുന്നു എന്ന തോന്നൽ നൽകുന്നു അതിനാൽ ഈ ഡിസ്പ്ലേകൾ വളരെ പ്രധാനമാണ് അതിനാൽ ഇവ ഒരു വിആർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള വ്യത്യസ്ത ഘടകങ്ങളാണ് ചില വ്യത്യസ്ത ഘടകങ്ങൾ ഈ സെൻസറുകൾ വളരെ നിർണായകമാണ് വ്യത്യസ്ത തരം സെൻസറുകൾ ഉപയോഗിക്കുന്നു ഈ സെൻസറുകൾ ഡിസ്പ്ലേ സിസ്റ്റം ഇവ വളരെ പ്രധാനമാണ് തീർച്ചയായും ലെൻസുകൾ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ഉയർന്ന നിലവാരമുള്ള പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉണ്ടായിരിക്കണം ഹൈ എൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഈ വിആർ സിസ്റ്റങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്നു കാരണം ഒരു നിശ്ചിത പ്രവൃത്തി ചെയ്യുന്നതിനും കാലതാമസം ഉണ്ടായാൽ അനുഭവം ലഭിക്കുന്നതിനും ഇടയിൽ കാലതാമസം ഉണ്ടായാൽ ആ തോന്നൽ ഉണ്ടാകില്ല അപ്പോൾ ഈ വിആർ സംവിധാനം അത്ര പ്രയോജനപ്പെടാൻ പോകുന്നില്ല അതിനാൽ വെർച്വൽ റിയാലിറ്റിയുടെ വ്യത്യസ്ത ആപ്ലിക്കേഷനുകളെക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറയുകയായിരുന്നു അതിനാൽ വെർച്വൽ റിയാലിറ്റി ഇവിടെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാൻ കഴിയും ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു VR ഹെഡ്സെറ്റാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ വെർച്വൽ റിയാലിറ്റി സെറ്റുകൾ ഒരു സൈനികൻ ചില കോംബാറ്റ് ഓപ്പറേഷനോ സമാനമായ മറ്റെന്തെങ്കിലുമോ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അതിനാൽ ഈ ഹെഡ്സെറ്റുകളുടെ വ്യത്യസ്ത ഘടകങ്ങൾ വളരെ പ്രധാനമാണ് അതിനാൽ ഇവ വളരെ പ്രധാനമാണ് കൂടാതെ ഈ ഹെഡ്സെറ്റുകളിൽ വ്യത്യസ്ത തരം സെൻസറുകൾ മാഗ്നെറ്റോമീറ്ററുകൾ ആക്സിലറോമീറ്റർ ഗൈറോസ്കോപ്പ് വ്യത്യസ്ത ലെൻസുകൾ ഡിസ്പ്ലേ സ്ക്രീനുകൾ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നിങ്ങനെ വ്യത്യസ്ത ഘടകങ്ങൾ ഉണ്ട് ഇവയെല്ലാം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഇവയാണ് പ്രധാന ഘടകങ്ങൾ ഒരു വിആർ സിസ്റ്റം വ്യത്യസ്ത തരം വെർച്വൽ റിയാലിറ്റി ഒന്ന് നോൺ ഇമ്മേഴ്സീവ് സിമുലേഷൻ സെമി ഇമ്മേഴ്സീവ് സിമുലേഷൻ ഫുൾ ഇമ്മേഴ്സീവ് സിമുലേഷൻ ഇവ വ്യത്യസ്ത തരം വെർച്വൽ റിയാലിറ്റി എൻവയോൺമെന്റുകളാണ് നോൺ ഇമേഴ്സീവ് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉപയോക്താവ് ഒരു പോർട്ടൽ അല്ലെങ്കിൽ വിൻഡോ വഴി വെർച്വൽ പരിതസ്ഥിതിയിലേക്ക് പ്രവേശിക്കുന്നു ഇത് അടിസ്ഥാനപരമായി വെർച്വൽ റിയാലിറ്റി സിമുലേഷനുകൾക്ക് പുറത്തുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു പെരിഫറൽ അവബോധം ഉണ്ടാക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു അതിനാൽ ഈ പേര് അത് സൂചിപ്പിക്കുന്നത് പോലെ നോൺ ഇമ്മേഴ്സീവ് സിമുലേഷൻ അടിസ്ഥാനപരമായി ഉപയോക്താവിന്റെ ഒരു ഉപവിഭാഗം മാത്രം ഉപയോഗിക്കുക അതെല്ലാം മുഴുവനായല്ല എന്നാൽ ഇത്തരത്തിലുള്ള സിമുലേറ്റഡ് പ്ലാറ്റ്ഫോമുകളിൽ ഇമ്മേഴ്സീവ് അല്ലാത്ത സിമുലേറ്റഡ് പ്ലാറ്റ്ഫോമുകളിൽ ഉപയോക്തൃ ഇന്ദ്രിയങ്ങളുടെ ഒരു ഉപവിഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ സെമി ഇമേഴ്സീവ് വീണ്ടും ഭാഗികമായി അത് മുഴുവനാകാത്തത് പോലെയല്ല എന്നാൽ ഇവിടെ ഭാഗികമായോ പൂർണ്ണമായോ ഉള്ള അനുഭവം ഈ വ്യത്യസ്ത സെൻസറുകളിലൂടെയും ഉപയോക്താക്കൾ ഈ വ്യത്യസ്ത സെൻസറുകളിലൂടെയും ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് സംവേദനക്ഷമമാക്കുന്നതിലൂടെയും ഉപയോക്താക്കൾ ശേഖരിക്കുന്നു സെൻസറുകൾ ഇതാണ് ഈ നോൺ സെമി ഇമേഴ്സീവ് സിമുലേഷനിൽ ചെയ്യുന്നത് ഇവിടെ അടിസ്ഥാനപരമായി ഇവ ഉയർന്ന പ്രകടനമുള്ള ഗ്രാഫിക്കൽ കംപ്യൂട്ടിംഗ് സിസ്റ്റങ്ങളാൽ പ്രവർത്തിക്കുന്നവയാണ് വലിയ സ്ക്രീൻ പ്രൊജക്ടറുകൾക്കൊപ്പം ഇവ സെമി ഇമ്മേഴ്സീവ് പ്ലാറ്റ്ഫോമുകൾക്കായി ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് പൂർണ്ണമായി മുഴുകുന്നത് അടിസ്ഥാനപരമായി ഉയർന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സമ്പൂർണ്ണ ഇമ്മേഴ്സീവ് അനുഭവമുണ്ട് ഉപയോക്താക്കൾക്ക് ചില സിമുലേഷനുകളിലൂടെ പൂർണ്ണമായ റിയലിസ്റ്റിക് അനുഭവം വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ഈ സിമുലേഷനുകൾ വ്യത്യസ്ത തലയിൽ ഘടിപ്പിച്ച ഡിസ്പ്ലേകൾ മോഷൻ ഡിറ്റക്റ്റിംഗ് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് വിശാലമായ കാഴ്ചയുടെ ഡെലിവറി വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ AR ഉം VR ഉം ഇതുവരെ മനസ്സിലാക്കിയ നമുക്ക് ഇപ്പോൾ AR ഉം VR ഉം തമ്മിലുള്ള സമാനതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിനാൽ നിരവധി സമാനതകളുണ്ട് അവ വളരെ സാമ്യമുള്ളതാണ് അതിനാൽ ഇവ രണ്ടും ഉപയോക്താക്കൾക്കായി പുതിയ കൃത്രിമ ലോകം സൃഷ്ടിക്കുന്നു ഈ രണ്ട് സാങ്കേതികവിദ്യകൾക്കും ഈ കൃത്രിമ ലോകം സൃഷ്ടിക്കാൻ സഹായിക്കും ഇവ ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങൾ നൽകുന്നു അത് വളരെ സാമ്യമുള്ളതാണ് മെഡിക്കൽ സയൻസ് ജ്യോതിശാസ്ത്രം ഫ്ലൈറ്റ് സിമുലേഷനുകൾ തുടങ്ങിയ മേഖലകളിൽ ഈ AR VR എന്നിവയുടെ ഓരോ മേഖലയിലും വലിയ പ്രതീക്ഷയുണ്ട് ഈ വ്യത്യസ്ത തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഡൊമെയ്നുകളിൽ AR VR സാങ്കേതികവിദ്യകളുടെ ധാരാളം ഉപയോഗമുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ ഈ സാങ്കേതികവിദ്യകൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയെയും വെർച്വൽ റിയാലിറ്റിയെയും താരതമ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി യഥാർത്ഥ പരിസ്ഥിതിയിലേക്ക് ഡിജിറ്റൽ ഘടകങ്ങൾ ചേർക്കുന്നു ഇത് യഥാർത്ഥ ലോകത്തിന്റെയും വെർച്വൽ റിയാലിറ്റിയുടെയും ഒരു എൻക്രസ്റ്റായി വെർച്വൽ ഘടകങ്ങൾ നൽകുന്നു ഇത് ആഴത്തിലുള്ള ആപ്ലിക്കേഷൻ വാഗ്ദാനം ചെയ്യുന്നു ആഗ്മെന്റഡ് റിയാലിറ്റിയുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് സംഭവിക്കുന്നത് ചില ഹൈ എൻഡ് ഐസിടി ഫീച്ചറുകളാൽ ഭൌതിക ലോകം വർദ്ധിപ്പിച്ചതാണ് അതിനാൽ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള മെച്ചപ്പെട്ട ധാരണയിൽ ഉപയോക്താവിന് ഒരുതരം മെച്ചപ്പെട്ട അനുഭവം ലഭിക്കും മറുവശത്ത് വെർച്വൽ റിയാലിറ്റിയിൽ ഉപയോക്താവിന് പൂർണ്ണമായോ ഭാഗികമായോ പൂർണ്ണമായ ഇമ്മേഴ്സീവ് അനുഭവം ലഭിക്കും അതിനാൽ ഉപയോക്താവ് അവിടെ ഉണ്ടെന്നും അവൻ പൂർണ്ണമായും മുഴുകിയോ ഭാഗികമായോ ഭൌതിക പരിതസ്ഥിതിയിൽ മുഴുകിയോ ആണ് പ്രവർത്തിക്കുന്നതെന്ന് ഉപയോക്താവിന് തോന്നുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു ഭൌതിക പരിതസ്ഥിതിയല്ല അത് ഒരു വെർച്വൽ പരിതസ്ഥിതിയാണ് അതിൽ ഉപയോക്താവ് പ്രവർത്തിക്കുന്നു പക്ഷേ ഉപയോക്താവിന് അത് തോന്നുന്നു ഉപയോക്താവ് യഥാർത്ഥ ഭൌതിക ലോകത്താണ് പ്രവർത്തിക്കുന്നത് അത് ശരിയല്ല അത് യഥാർത്ഥമല്ല മറിച്ച് അനുകരിക്കപ്പെട്ട ഒന്നാണ് അതിനാൽ വെർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമുകളായ യഥാർത്ഥ ജീവിത ക്രമീകരണത്തിന്റെ ഡിജിറ്റൽ വിനോദം ഇത് വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ഒരാൾക്ക് കടന്നുപോകാൻ കഴിയുന്ന ചില പരാമർശങ്ങൾ ഇതാ അതിനാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ചില വെബ് റഫറൻസുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ AR VR എന്നിവയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങളുണ്ട് AR VR എന്നിവയെക്കുറിച്ച് ധാരാളം ഗവേഷണ പേപ്പറുകൾ ഉണ്ട് എന്നാൽ ഈ കോഴ്സിനായി ഈ ഓരോ സാങ്കേതികവിദ്യകളെക്കുറിച്ചും വിശദമായി കടന്നുപോകുമെന്ന് ഞാൻ കരുതുന്നു ആവശ്യമാണ് AR VR എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ ലഭിക്കണമെങ്കിൽ അവ ഓരോന്നും വിശദമായി മനസ്സിലാക്കുന്നത് എളുപ്പമല്ല എന്നാൽ AR VR എന്നിവയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇത് ശരിയായ കോഴ്സ് ആയിരിക്കില്ല നിങ്ങൾ AR VR എന്നിവയിൽ മറ്റ് ചില ഓൺലൈൻ കോഴ്സുകൾക്കായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിനാൽ AR VR സിസ്റ്റങ്ങളുടെ വ്യത്യസ്ത സവിശേഷതകൾ അതിന്റെ വ്യത്യസ്ത ഗുണങ്ങൾ അതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ഈ ധാരണ വ്യവസായ വ്യക്തികൾക്കും പഠിതാക്കൾക്കും ഒരു വ്യവസായ ക്രമീകരണത്തിൽ ഇവ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് അറിയാൻ ഇത് മതിയാകും അതത് വ്യവസായങ്ങളിൽ ഒരു IIoT പ്ലാറ്റ്ഫോം അതിനാൽ ഇതോടെ നമ്മുക്ക് അവസാനിപ്പിക്കാം